സ്വാഗതം സോഷ്യൽ മീഡിയയും പോലീസിംഗും എന്ന വിഷയത്തിൽ നമുക്ക് മുമ്പോട്ടു പോകാം ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഉള്ളടക്കം പോലീസ് ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ ഉപയോഗിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വ്യത്യസ്ത ചോദ്യങ്ങൾ നോക്കാൻ പോകുന്നു അതിനാൽ ഇവിടെയുള്ള ചോദ്യം എന്നത് ആശയവിനിമയത്തിന്റെ ആട്രിബ്യൂട്ടുകൾ അളക്കുന്നതിൽ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ നമുക്ക് പര്യവേക്ഷണം ചെയ്യാനാകുമോ എന്നതാണ് ഫെയ്സ്ബുക്കിന്റെ ഫ്രെയിംവർക്കിലും പോലീസ് ഓർഗനൈസേഷന്റെ ഒരു ഫേസ്ബുക്ക് പേജിന്റെ ഫ്രെയിം വർക്കിലും പൌരന്മാർക്കും പൌരന്മാർക്കും ഇടയിലും പോലീസുകാർക്കും പൌരന്മാർക്കും ഇടയിലും പോലീസുകാർക്കും പോലീസുകാർക്കും ഇടയിലും ആശയവിനിമയം നടക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ ഈ നാല് സെറ്റ് ഇടപെടലുകളിൽ ആശയ വിനിമയം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താനാകുമോ എന്ന താണ് ചോദ്യം തുടർന്ന് അഫക്റ്റീവ് എക്സ്പ്രഷൻ എൻഗേജ്മെന്റ് സോഷ്യൽ കോഗ്നിറ്റീവ് റെസ്പോൺസ് പ്രോസസ് തുടങ്ങിയ പെരുമാറ്റ ഗുണങ്ങൾ തിരിച്ചറിയുക ലളിതമായി പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇടപെടലുകൾ എത്രമാത്രം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്ന് കണ്ടെത്തുന്നു ഇടപഴകൽ എത്ര തവണ സംഭവിക്കുന്നു ഇടപെടലിൽ ഉൾപ്പെടുന്ന കക്ഷികൾ തമ്മിലുള്ള പ്രതികരണം എങ്ങനെയാണ് എന്നിവ തിരിച്ചറിയുക കാരണം നമ്മൾ നോക്കിയ പ്രത്യേക ചോദ്യങ്ങൾ ഇവയാണ് വിഷയപരമായ സവിശേഷതകൾ ഇടപഴകൽ സവിശേഷതകൾ വൈകാരിക വിനിമയങ്ങൾ വൈജ്ഞാനികവും സാമൂഹികവുമായ ദിശാബോധം ഇവ എന്താണെന്നതിനെക്കുറിച്ച് ഞാൻ അൽപ്പം വിശദീകരിക്കാം തുടർന്ന് നിങ്ങൾക്ക് കുറച്ച് ഡാറ്റ കാണിക്കുകയും ശേഖരിച്ച ഡാറ്റ ഉപയോഗിച്ച് ചില ഫലങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിനാൽ സോഷ്യൽ മീഡിയ ചർച്ചാ ത്രെഡുകളുടെ സവിശേഷതകളായ ഉള്ളടക്കത്തിന്റെയും വിഷയങ്ങളുടെയും സ്വഭാവും നമ്മൾ നോക്കും ആളുകൾ ഉള്ളടക്ക ത്തെക്കുറിച്ചും വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന വിഷയപരമായ സവിശേഷതകളാണ് അതിൽ ഉൾപ്പെടുന്നത് പൌരന്മാരും പോലീസും എങ്ങനെ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഏർപ്പെടുന്നു എൻഗേജ്മെന്റ് എങ്ങനെ സംഭവിക്കുന്നു ഇടപഴകൽ ഏത് തലത്തിലാണ് ഇടപെടലിൽ എത്രമാത്രം ഇന്റെറാക്ഷൻ ഉണ്ട് എന്നിവ ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു മൂന്നാമത്തേത് വൈകാരികമായ കൈമാറ്റങ്ങളാണ് അത് സോഷ്യൽ മീഡിയയിൽ പ്രകടമാകുന്ന വികാരങ്ങളുടെയും സ്വാധീന പ്രകടനങ്ങളുടെയും സ്വഭാവമാണ് എത്രമാത്രം പോസിറ്റീവ് നെഗറ്റീവ് ആയ കാര്യങ്ങൾ ഉൾപ്പെടുന്നു കൂടാതെ യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന ചില ആശയങ്ങൾ ആക്രമണ സ്വഭാവവും ഉത്തേജനം സ്വഭാ വവും ഉള്ളതാണ് കോഗ്നിറ്റീവ് സോഷ്യൽ ഓറിയന്റേഷൻ പോലീസിന്റെ ഫേസ്ബുക്ക് പേജുകളുടെ പശ്ചാത്തലത്തിൽ വൈജ്ഞാനികവും സാമൂഹികവുമായ പ്രതികരണ പ്രക്രിയകളുടെ സ്വഭാവ സവിശേഷതകളായ ഭാഷാപരമായ സവിശേഷ തകൾ എന്തൊക്കെയാണ് തുടങ്ങിയവയും ചർച്ച ചെയ്യും ഡാറ്റ വിശകലനം ചെയ്യുന്നതിലും ജനറേറ്റുചെയ്യുന്ന ഉള്ളടക്കത്തിൽ നിന്ന് നമുക്ക് എന്ത് നേടാനാകുമെന്ന് കാണുന്നതിലും നമ്മൾ നോക്കുന്ന 4 വ്യത്യസ്തവശങ്ങൾ ഇവയാണ് വീണ്ടും ഞാൻ ഈ മുഴുവൻ കോഴ്സും എടുക്കുന്ന രീതി ദയവായി ഓർക്കുക മുഴുവൻ ഉള്ളടക്കവും യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം എടുക്കുക എന്നതാണ് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക കുറച്ച് ഡാറ്റ നോക്കുക ചിലത് ഉണ്ടാക്കുക ചിലത് വിശകലനം ചെയ്യുക ചില അനുമാനങ്ങൾ ഉണ്ടാക്കുക നമ്മൾ ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങിവരികയും ആ ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചതെന്ന് പറയുകയും ചെയ്യുക നമ്മൾ എങ്ങനെയാണ് വിശ്വാസ്യതയും വിശ്വാസവും ചെയ്യുന്നതെന്ന് തുടക്ക ത്തിൽ നിന്ന് നോക്കുകയാണെകിൽ ബോസ്റ്റൺ മാരത്തൺ സാൻഡി ചുഴലിക്കാറ്റ് തരത്തിലുള്ള വിഷയങ്ങൾ പറയേണ്ടി വരും തുടർന്ന് സ്വകാര്യതയുടെ അടിസ്ഥാനത്തിൽ മുഖം തിരിച്ചറിയൽ വിശകലനം ചെയ്യുന്നതും നമ്മൾ നോക്കി ഈ ആഴ്ചയുടെ ആദ്യ ഭാഗങ്ങളിൽ പോലും പോലീസും പൌരന്മാരും എങ്ങനെയാണ് ബാംഗ്ലൂർ സിറ്റി പോലീസ് ഇടപെടലുകൾ നടക്കുന്നതെന്നതിന്റെ ഉള്ളടക്കം നമ്മൾ നോക്കി അതാണ് ഇപ്പൊ മുമ്പോട്ടു പോകുന്നത് ഈ ആഴ്ചയുടെ രണ്ടാം ഭാഗത്തെ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഒരു പേജ് ഞാൻ കാണിച്ചുതരാം അവിടെ ലിസ്റ്റുചെയ്തിരിക്കുന്ന വിവിധ പോലീസ് ഓർഗനൈസേഷന്റെ പേജുകൾ നമ്മൾ എടുത്ത അതേ പട്ടികയാണ് 85 പോലീസ് ഓർഗനൈസേഷനുകളുടെ പട്ടിക അതിൽ 85 പൊതു ഔദ്യോഗിക പോലീസ് വകുപ്പുകളുണ്ട് തീർച്ചയായും അവയിൽ ചിലത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അവയിൽ ചിലത് സ്ഥിരീകരിച്ചിട്ടില്ല അതിനാൽ നമ്മൾ ഈ ഡാറ്റ എടുത്തു പേജുകൾക്കായി 2010 മുതൽ 2015 ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ശരാശരി 3 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഡാറ്റ നമ്മൾ എടുത്തു അവിടെ ഡാറ്റ ശേഖരിക്കുകയും ചെയ്തു അതിൽ 47474 വോൾ പോസ്റ്റസ് ഉം സ്റ്റാറ്റസ് അപ്ഡേറ്റുകളും ഉണ്ടായിരുന്നു വാൾ പോസ്റ്റിൽ തന്നെ വാൾ പോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ ഞാൻ എന്റെ അക്കൌണ്ടിലെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നു പേജിൽ പോസ്റ്റുചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്ന് ഒരിക്കൽ എന്റെ പേജിൽ കാണിക്കുന്നത് വാൾ പോസ്റ്റുകളാണ് കൂടാതെ എന്നിൽ നിന്നുള്ള സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ പേജിൽ എന്നോട് സംവദിക്കുന്ന ആളുകളിൽ നിന്നുള്ള വാൾ പോസ്റ്റ്കൾ എന്നിവയും കാണിക്കുന്നു അതിനാൽ ഇതാണ് ഒരു പോലീസ് നടത്തിയ മൊത്തം പോസ്റ്റുകൾ ഈ പോലീസ് ഓഫീസറുടെ വിവരങ്ങളിൽ തുടർച്ചയായി കടന്നുപോകുന്ന ഐക്കണുകൾ ഈ പട്ടികയിലെ രണ്ടാമത്തെ നിരയിലും പൌരന്മാർ ഈ ടേബിളിലെ മൂന്നാമത്തെ നിരയിലുമാണ് അങ്ങനെ പോലീസ് ചെയ്ത മൊത്തം പോസ്റ്റുകൾ 85408 ആയിരുന്നു പൌരന്മാർ 47474 ആയിരുന്നു ഈ നമ്പർ അവസാനത്തെ സ്ലൈഡിൽ ഉള്ളതിനോട് സെയിം ആണ് അത് പൌരന്മരുടെ വോൾ പോസ്റ്റുകൾ പേജിൽ ആളുകൾ പോസ്റ്റുചെയ്യുന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ ഉൾപ്പെടുന്നു അത് പോലീസ് തന്നെ പേജിൽ പോസ്റ്റുചെയ്യുന്നു ഒന്നോ അതിലധികമോ കമന്റുകളുള്ള പോസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 46000 വരും 47000 പേരിൽ പൌരന്മാരുടെ ഒരു അഭിപ്രായം കൂടി ഉണ്ടായിരുന്ന പോസ്റ്റു കൾ ഏകദേശം 24000 ആണ് അതിനാൽ പോലീസും പൌരന്മാരും ഇടപഴകുന്ന ഇടപെടലുകൾ കണ്ടാൽ പോലീസ് പോസ്റ്റു ചെയ്യുമ്പോൾ PC ഇവർ എങ്ങനെയാണ് കമന്റുകൾ ചെയ്യുന്നത് ഈ ടേബിൾ വായിക്കാനുള്ള മാർഗ്ഗം പോലീസ് പോസ്റ്റ്കോളം നമ്പർ 3 PC എന്നാൽ പോലീസ് ഉള്ളടക്കം പോസ്റ്റുചെയ്യുന്നു പോലീസും പൌരന്മാരും P C എന്നിവയുമായി ആശയവിനിമയം നടത്തുന്നു കൂടാതെ C പൌരന്മാർ മാത്രമാണ് ഇടപെടുന്നത് ഇത് പോലീസ് പോസ്റ്റുകളിൽ പൌരന്മാർ പോലീസുമായി കൂടുതൽ ഇടപഴകുന്നുവെന്ന് കാണിക്കുന്നു കൂടാതെ പോസ്റ്റുകൾ അഭിപ്രായങ്ങൾ ഒന്നിലധികം അഭിപ്രായങ്ങളുള്ള 47000 പൌരന്മാർ എന്നിവരുടെ മൊത്തം പോസ്റ്റുകൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു കമെന്റിനേക്കാൾ കൂടുതലാണിത് ഒരു അഭിപ്രായം 24000 ആണ് ഇത് വായിക്കാനുള്ള വഴി പൌരന്മാർ പോസ്റ്റുചെയ്യുന്നു തുടർന്ന് പൌരന്മാർ അതിൽ അഭിപ്രായമിടുന്നു ഇത് ഏകദേശം 17000 ആണ് പൌരന്മാർ മാത്രം അഭിപ്രായപ്പെടുന്നത് 7000 ആണ് ഇത് ഡാറ്റ സെറ്റ് എന്താണെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം നൽകുന്നു അത് പൌരന്മാർക്കും പോലീസുകാർക്കുമൊപ്പം പോലീസ് പോസ്റ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം ഇടപെടലുകൾ നടക്കുന്നു പൌരന് പോസ്റ്റിൽ എത്ര ഇടപെടലുകൾ നടക്കുന്നു എന്നതിനെ കുറിച്ച് മനസിലാക്കി തരുന്നു എന്നാൽ പോലീസും പൌരന്മാരും അതുപോലെ പൌരന്മാരും പരസ്പരം ഇടപെടുന്നു കൂടാതെ എന്ത് വിശകലനം ചെയ്യാമെന്ന് നോക്കിയാണ് നടപടികൾ നടത്തിയത് വിഷയങ്ങൾ ഇടപഴകൽ വൈകാരിക സാമൂഹിക വൈജ്ഞാനിക വിലയിരുത്തൽ എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്നത് ഗവേഷണ ചോദ്യങ്ങളോടെ ഈ പ്രഭാഷണം ആരംഭിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്ന നാല് കാര്യങ്ങൾ ഇവയാണ് വിഷയങ്ങൾ N ഗ്രാം വിശകലനം ചെയ്തു അതായത് 1 ഗ്രാമിൽ എത്ര തവണ വാക്കുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നത് ഒരൊറ്റ പദ വിശകലനമായിരിക്കും ബൈഗ്രാം 2 വാക്കുകൾ ഒരുമിച്ച് ദൃശ്യമാകും K മീൻസ് ക്ലസ്റ്റർസ്ക്ലസ്റ്ററുകൾ അടിസ്ഥാനപരമായി ഒരുമിച്ച് കൂടുതൽ ആളുകൾ ഒരേ പോസ്റ്റിൽ ഇടപഴകുന്നത് കാണുമ്പോൾ അവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ട് യഥാർത്ഥത്തിൽ എത്ര ക്ലസ്റ്ററുകൾ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാവുന്നതാണ് ഉദാഹരണത്തിന് ക്ലസ്റ്ററുകൾ രാജ്യത്ത് എവിടെനിന്നും ഈ ക്ലാസ് എടുക്കുന്ന വിദ്യാർത്ഥികളും ഒരു ക്ലസ്റ്ററായ ഒരു പ്രത്യേക സംസ്ഥാനത്ത് നിന്ന് ഇത് എടുക്കുന്ന വിദ്യാർത്ഥികളെ മാത്രം നോക്കിയാൽ മനസിലാക്കാം ഒരു സംസ്ഥാനത്തുനിന്ന് ഈ കോഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികളെ ഒരു ക്ലസ്റ്ററായി കണക്കാക്കാം രാജ്യമെമ്പാടുമുള്ള ഈ കോഴ്സ് എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ശൃംഖലയ്ക്കുള്ളിൽ ഞാൻ ക്ലസ്റ്ററുകളിലേക്ക് നോക്കിയത് അങ്ങനെയാണ് പോസ്റ്റുകളിൽ അഭിപ്രായമിടുന്ന പൌരന്മാരുടെ പോലീസുകാരുടെ എണ്ണം പോസ്റ്റുകളിൽ അഭിപ്രായമിടുന്ന വ്യത്യസ്ത പൌരന്മാർ ലൈക്കുകളുടെയും അഭിപ്രായങ്ങളുടെയും ശരാശരി എണ്ണം ഇവയാണ് നമ്മൾ നോക്കുന്നത് അടുത്ത രണ്ട് സ്ലൈഡുകൾ ആഴ്ചകൾക്കുള്ളിൽ കടന്നുപോകും അതിനാൽ പോസിറ്റീവ് നെഗറ്റീവ് വികാരങ്ങളെക്കുറിച്ച് പറയുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് വാലൻസ് പോസ്റ്റുകളുടെ തീവ്രത പോസ്റ്റ് എത്ര ശക്തമാണ് എന്നതാണ് അറൂസൽ എന്നിട്ട് ഉത്തരങ്ങൾ പല തരത്തിൽ ചെയ്യാം കോഴ്സിലും ഇവിടെ ട്യൂട്ടോറിയലിൽ അവതരിപ്പിക്കും നിങ്ങൾക്ക് എൻ എൽ ടി കെ യെ പരിചയപ്പെടുത്താം ഇത് ടെക്സ്റ്റ് വേഡ് അനാലിസിസ് എന്നിവ ചെയ്യുന്നതിനുള്ള ഒരു ടൂൾ കിറ്റ് ആണ് ഇവിടെ LIWC വീണ്ടും ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണം ടെക്സ്റ്റ് ഖണ്ഡികയായി ഇൻപുട്ട് എടുക്കുന്നു അല്ലെങ്കിൽ Facebook ൽ നിന്നുള്ള ഒരു പോസ്റ്റ് നമുക്ക് അനുമാനിക്കാം LIWC യ്ക്ക് ഈ ഇൻപുട്ട് നൽകിക്കൊണ്ട് LIWC നൽകിയ ഉള്ളടക്കത്തിൽ ദൃശ്യമാകുന്ന വ്യത്യസ്ത വിഭാഗങ്ങളുടെ ആശയങ്ങൾ LIWC യിലേക്ക് നിർമ്മിക്കും ഇതിനർത്ഥം നിങ്ങൾക്ക് ഒരു ഖണ്ഡിക ലഭിക്കുകയാണെങ്കിൽ അത് ധാരാളം പോസിറ്റീവ് വാക്കുകളും സന്തോഷകരമായ വാക്കുകളും പോലെ അത് സന്തോഷകരമായ ഒരു വിഭാഗം സൃഷ്ടിക്കും അതിനാൽ ടെക്സ്റ്റ് ഉള്ളടക്കം വിശകലനം ചെയ്യുന്നതിൽ ഇത് പതിവായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ LIWC യുടെ ഈ വിഭാഗങ്ങൾക്കുള്ളിൽ ഏകദേശം 35 അല്ലെങ്കിൽ 37 വിഭാഗങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു പോസ്റ്റ് ചെയ്ത ടെക്സ്റ്റിലെ വിഭാഗങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ LIWC യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് നൽകാം വീണ്ടും സമാനമായ നിഘണ്ടുവും ഉണ്ട് വ്യക്തിപരമായ ഫോക്കസ് സോഷ്യൽ ഓറിയന്റേഷൻ കോഗ്നിഷൻ വീണ്ടും ഇത് LIWC ഉള്ളടക്കത്തിലൂടെ ചെയ്യുന്നതിലേക്കു ഞാൻ ഇപ്പോൾ നിങ്ങളെ നയിക്കും ആദ്യം നമുക്ക് വിഷയത്തിന്റെ സവിശേഷതകൾ നോക്കാം നമ്മൾ പറഞ്ഞ നാല് കാര്യങ്ങൾ ആദ്യത്തേത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് അതിനാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകഅതിനാൽ പോലീസ് വീണ്ടും പോസ്റ്റുചെയ്യുമ്പോൾ മുകളിലുള്ള ഐക്കൺ നോക്കിയാൽ അത് പോലീസാണ് പോലീസ് പോസ്റ്റ് ഉപദേശങ്ങളിലും വിവിധ കേസുകളുടെ അന്വേഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പൌരന്മാർക്ക് താൽപ്പര്യമുള്ള വിവരങ്ങൾ അതാണ് പോലീസ് പോസ്റ്റ് ചെയ്യുന്നു പോലീസിലെയും പൌരന്മാരിലെയും പോലീസ് പോസ്റ്റ് ഇടപെടലുകളിലെ ഉള്ളടക്ക വിശകലനം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിയമങ്ങൾ സുരക്ഷ ലംഘനങ്ങൾ എന്നിവയെക്കുറിച്ച് എപ്പോഴും ചർച്ചകൾ നടക്കുന്നു ഇവ ഇപ്പോൾ യൂണിഗ്രാമുകൾ മാത്രമാണ് നോക്കുന്നത് അതിനാൽ നിയമങ്ങൾ എന്ന ആശയം നിങ്ങൾ നോക്കൂ പോലീസ് ഇതിനെക്കുറിച്ച് പോസ്റ്റിംഗ് ചെയ്യുന്നത് നിയമങ്ങളാണ് സിഗ്നൽ സുരക്ഷാ നിയമങ്ങൾ ഹെൽമറ്റ് ധരിക്കൽ നിയമലംഘനങ്ങൾ അതുപോലുള്ള വിഷയങ്ങൾ എന്നിവ ആണ് പോസ്റ്റ് ചെയ്യുന്നത് പൌരന്മാർ മാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഉള്ളടക്കം നോട്ടീസ് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടൽ പൌരന്മാർക്കുള്ള ഇടപെടലുകൾ എന്നിവ പിന്തുടരുന്നതാണ് കൂടുതലും ആ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് നിങ്ങൾക്ക് ഒരു ബോധം നൽകുന്നു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അടിസ്ഥാനപരമായി വ്യത്യാസങ്ങൾ എങ്ങനെയെന്ന് നിങ്ങളോട് പറയുക എന്നതാണ് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ സുരക്ഷ ലംഘനങ്ങൾ എന്നിവയ്ക്കെതിരായ നോട്ടീസും പ്രോസിക്യൂഷനും പോലീസ് പോസ്റ്റും ഇടപെടലുകളും പോലീസും പൌരന്മാരും തമ്മിലും പൌരന്മാർക്കിടയിലും മാത്രം സംഭവിക്കുമ്പോൾ ഏത് തരത്തിലുള്ള വിഷയ ങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് ഇത് നിങ്ങൾക്ക് നൽകുന്നു ഇപ്പോൾ നിങ്ങൾ ചോദ്യം തിരിച്ചിട്ട് നോക്കുകയാണെകിൽ പൌരന്മാർ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക മിക്ക പോസ്റ്റുകളും ഒരു നടപടിയെടുക്കാൻ പോലീസിനോട് അഭ്യർത്ഥിക്കുന്നു അതിനാലാണ് പൌരന്മാർ ഈ പേജുകൾ ഉപയോഗിക്കുന്നത് ചില നടപടികൾ ആവശ്യപ്പെടുന്നതിനായി പൌരന്മാർ പേജിൽ പോസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ യൂണിഗ്രാം വിശകലനം മാത്രം നോക്കിയാൽ "Please" നടപടിയെടുക്കുന്നത് കാണുന്നു വളരെ വ്യക്തമായി നടപടിയെടുക്കുക പൌരന്മാർ പോസ്റ്റുചെയ്യുമ്പോഴും പൌരന്മാർക്കും പോലീസിനുമിടയിലുള്ള ഇടപെടലുകൾക്കും ഇടയിൽ സംഭവിക്കുന്ന ഏറ്റവും സാധാരണമായ കാര്യം ഇതാണ് പൌരന്മാരിൽ നിങ്ങൾ കുറഞ്ഞത് ഒന്നെങ്കിലും എടുക്കുകയാണെങ്കിൽ ദയവായി ഒന്ന് നടപടിയെടുക്കുക പൌരന്മാർക്കുള്ളിൽ ചെയ്യുന്ന യൂണി ഗ്രാമുകൾ ആളുകൾ ഉൾക്കൊള്ളുന്നു പോലീസുകാരും പൌരന്മാരും തമ്മിലുള്ള ഇടപെടലുകളാണ് സംഭവിക്കുന്നതെന്ന് ഇത് അടിസ്ഥാനപരമായി കാണിച്ചുതരുന്നു പൌരന്മാർ നടപടിയ്ക്കായി പോസ്റ്റിടുമ്പോൾ പോലീസും പൌരന്മാരും സംസാരിക്കുമ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കുക പൌരന്മാരും നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു സഹായവും തുടങ്ങി അതുപോലുള്ള കാര്യങ്ങളും ഈ രണ്ട് വിഷയ വിശകലനങ്ങളും പൌരന്മാർക്കും പോലീസിനും ഉള്ളടക്കം പോസ്റ്റു ചെയ്യുമ്പോൾ ഈ ഫേസ്ബുക്ക് പേജുകളിൽ പോസ്റ്റുചെയ്യുമ്പോൾ ഇടപെടലുകൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഇപ്പോൾ നിങ്ങൾ വിഷയങ്ങളുടെ ക്ലസ്റ്ററുകൾ നോക്കുമ്പോൾ ഇവിടെ പോലീസ് ആരംഭിച്ച ചർച്ചകൾ പൌരന്മാർ ആരംഭിച്ചതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ നിഗമനത്തിലെത്തുന്നത് അതായത് പോലീസ് ചർച്ച ആരംഭിക്കുമ്പോൾ പ്രത്യേകിച്ചും സംസാരിക്കുന്ന വിഷയങ്ങൾ ബോധവൽക്കരണ ഡ്രൈവ് സുരക്ഷാ പ്രചാരണങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ വ്യക്തമാണ് ചർച്ചകൾ സൃഷ്ടിച്ച പോലീസിനായി കാണിക്കുന്ന വിഭാഗങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ചെറുതാണ് അവിടെ നിങ്ങൾ പൌരന്മാരെ നോക്കുമ്പോൾ അത് ശരിക്കും ചിതറിക്കിടക്കുന്നു ഇവിടെ പോലീസ് ബോധവൽക്കരണ ഡ്രൈവ് സുരക്ഷാ കാമ്പെയ്നുകൾ റോഡ് സെൻസെസ് മര്യാദയുടെ വാഗ്ദാനം സുരക്ഷയുടെ രക്ഷിതാവ് എന്നിവയെല്ലാം പോലീസ് ചെയ്യുന്ന പോസ്റ്റുകളിൽ ഉൾ പ്പെടുന്നു പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടതും പ്രവർത്തന റിപ്പോർട്ടും നിങ്ങളുടെ ട്വീറ്റ്ഹർ ജിയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളെക്കുറിച്ചും നടപടി സ്വീകരിച്ചു സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ ഷില്ലോംഗ് നഗരത്തിലെ എല്ലാ യാത്രക്കാർക്കും സുപ്രഭാതം NH 40 മുതൽ 44 വരെ കനത്ത ചലനമുണ്ട് തുടങ്ങി ബ്ലാ ബ്ലാ ഇങ്ങനെ പോകുന്നു അതിനാൽ വിഷയങ്ങൾ വളരെ ചെറുതാണ് നിങ്ങൾ പൌരന്മാരെ ഒന്ന് നോക്കിയാൽ വിഷയങ്ങൾ ശാന്തമാണ് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പൌരന്മാരിൽ നിന്ന് വരുന്ന വിഷയങ്ങൾ പോലീസിനേക്കാൾ വളരെ വിശാലമാണ് എന്നതിനേക്കാൾ വളരെ അവബോധജന്യമാണ് എന്നാൽ പോലീസ് ആരംഭിച്ച ചർച്ചകൾ പൌരൻ ആരംഭിച്ചതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഉപസംഹാരത്തിൽ ഇവിടെ ഒരു അഭിനന്ദനം പത്രം ലേഖനങ്ങൾ പൌരന്മാരുടെ നുറുങ്ങുകൾ പരാതികൾ അയൽപക്ക പ്രശ്നങ്ങൾ കാണാതായ ആളുകൾ ഈ പട്ടിക ഉയരുന്നു നമ്മൾ പോലീസിനെ അഭിനന്ദിക്കുന്നു അവർ ഈ പേജുകളിൽ പങ്കിടാൻ ആഗ്രഹിക്കുന്ന ചില വാർത്താ ലേഖനങ്ങൾ പൌരന്മാരുടെ നുറുങ്ങുകൾ പരാതികൾ തെറ്റായ വശത്ത് ഡ്രൈവ് ചെയ്യുക അയൽപക്ക പ്രശ്നങ്ങൾ കാണാതായ ആളുകൾ എന്നിവയാണ് വിഷയങ്ങൾ പൌരന്മാരിൽ നിന്ന് വരുന്ന പോസ്റ്റിൽ കണ്ട വിഷയങ്ങളുടെ ബക്കറ്റുകൾ ഇവയാണ് അതിനാൽ വിഷയങ്ങൾ വളരെ വൈവിധ്യപൂർണ്ണമാണെന്നും പോലീസ് ചർച്ചകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് വ്യക്തമായി കാണാം ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അതിനാൽ ഈ ഫേസ്ബുക്ക് പേജുകളിൽ പൌരന്മാർക്കിടയിലും പോലീസുകാർക്കിടയിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് ആദ്യം നോക്കേണ്ട ആദ്യത്തെ പ്രശ്നം നമ്മൾ കണ്ട 5 1 5 2 വിഷയങ്ങളിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ് ബാംഗ്ലൂർ സിറ്റി പോലീസിനുള്ളിൽ നമ്മൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നു അതിനാൽ ചോദ്യങ്ങൾക്കൊപ്പം ഇത്തരത്തിലുള്ള ഡാറ്റ നോക്കാനുള്ള ഉദ്ദേശ്യം ഈ രണ്ടിനേക്കാൾ വളരെ വ്യത്യസ്തമാണ് ഒരാൾ ഉള്ളടക്കം തിരയുന്നു പ്രവർത്തനക്ഷമമായ വിവരങ്ങൾ ഇവിടെ നമ്മൾ ഇടപെടുന്നത് എന്താണ് എന്ന് നോക്കുന്നു യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി പഠിക്കാം എൻഗേജ്മെന്റ് സവിശേഷതകൾ എങ്ങനെയാണ് പൌരന്മാരും പോലീസും സോഷ്യൽ മീഡിയ ചർച്ചാ ത്രെഡുകളിൽ ഏർപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ അഭിപ്രായ സവിശേഷതകൾ നോക്കാം അതായത് പോലീസ് എങ്ങനെയാണ് അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുന്നത് പൌരന്മാർ ഫേസ്ബുക്കിൽ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രചരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും നിരകളുടെ ആദ്യ സെറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് അടിസ്ഥാനപരമായി കാണിക്കുന്നത് പോലീസ് പോസ്റ്റ് ചെയ്യുമ്പോൾ പോലീസും പൌരന്മാരും അഭി പ്രായങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അതിനാൽ ഇത് പോലീസ് സിറ്റിസൺ ഗ്രൂപ്പിനുള്ളിൽ ഏകദേശം 55000 ആണെന്ന് കാണിക്കുന്നു നിങ്ങൾ പൌരന്മാരെ നോക്കുമ്പോൾ പൌരന്മാരുടെ പോസ്റ്റും അഭിപ്രായങ്ങളും പോലീസിന്റെയും പൌരന്മാരുടെയും അഭിപ്രായമാണെങ്കിൽ അത് വളരെ കുറവാണെന്ന് തോന്നുന്നു ഫേസ്ബുക്ക് പേജുകളിലെ അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ ഇത് ഏകദേശം 26 ശതമാനം കുറവാണ് പോസ്റ്റ് വരുന്നത് പൌരന്മാരിൽ നിന്നാണെങ്കിൽ കമന്റുകൾ വരുന്നത് പോലീസിൽ നിന്നും പൌരന്മാരിൽ നിന്നുമാണ് ഇത് കാരണം പോലീസ് പോസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകാം കാരണം അവർ നൽകുന്ന വിവരങ്ങൾ കൂടുതൽ പ്രയോജനകരമാണ് ഒരുപക്ഷേ ഈ പ്ലാറ്റ്ഫോമിലെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആകർഷകമാണ് പോലീസ് ചെയ്യുമ്പോഴും പൌരന്മാർ മാത്രം ആയിരിക്കുമ്പോഴും പൌരന്മാർ മാത്രമേ ഇതിലൂടെ ഇടപെടുകയുള്ളൂ പൌരന്മാർ മാത്രമേ പൌരന്മാരുടെ ഇടപെടലുകൾ നടത്തുകയുള്ളൂവെങ്കിൽ പോലീസിന്റെ ഭാഗത്തേക്കാൾ കുറവാണ് ഈ സ്ലൈഡ് അവസാന സ്ലൈഡിന്റെ ഡാറ്റയുടെ ഒരു ആന്തരിക കാഴ്ച മാത്രമാണ് അവസാന സ്ലൈഡ് ഇതായിരുന്നു ഇത് ശരാശരി സംഖ്യയായതിനാൽ ഇത് മൊത്തം സംഖ്യയാണ് കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട പോസ്റ്റുകൾക്കുള്ള ശരാ ശരി അഭിപ്രായങ്ങളുടെ എണ്ണമാണിത് അതായത് പോലീസും പൌരന്മാരും അവിടെ ഇടപഴകുന്നുവെങ്കിൽ പോസ്റ്റിനായി ശരാശരി 3 3 അഭിപ്രായങ്ങൾ ഉണ്ട് അവിടെ ലൈക്കുകൾ ഏകദേശം 9 ലൈക്കുകൾ ഉള്ളതിനാൽ പൌരന്മാർക്ക് ഏകദേശം 3 69 ഉം ഏകദേശം 13 38 ആണ് ശരാശരി അതേസമയം നിങ്ങൾ ശരാശരി നോക്കുമ്പോൾ ചിത്രം അല്പം വ്യത്യസ്തമാണ് അതായത് C P C യഥാർത്ഥത്തിൽ Cc യേക്കാൾ 9 49 ശതമാനം കുറവാണ് ഇത് പോലീസിന്റെയും പൌരന്മാരുടെയും പൌരന്മാരുടെ മാത്രവുമായ അഭിപ്രായങ്ങൾ ആണ് അതുപോലെ തന്നെ ലൈക്കുകളിലും C C പൌരന്മാരുടെ അഭിപ്രായമാണ് പോലിസിൽ നിന്നുള്ള പോസ്റ്റ് വന്നാൽ മാത്രം പോലീസിന്റെയും പൌരന്മാരുടെയും അഭിപ്രായങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്നതാണ് ഓരോ പോസ്റ്റിനും ശരാശരി ലൈക്കുകളുടെയും ശരാശരി കമന്റുകളുടെയും എണ്ണമാണിത് ഉദാഹരണത്തിന് നമ്മൾ അവിടെ സൂക്ഷിച്ച ഒരു സിറ്റിസൺ പോസ്റ്റ് എനിക്കും എന്റെ കുടുംബത്തിനും ബ്ലാ ബ്ലാ ബ്ലാ ബ്ലായിൽ നിന്ന് അനാ വശ്യ കോളുകൾ ലഭിക്കുന്നു പോലീസ് മറുപടി പറഞ്ഞു പ്രിയ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ സന്ദർശിച്ച് വിശദാംശങ്ങൾ നൽകുക പോലീസ് ഉചിതമായ നടപടി നിർദ്ദേശിക്കുകയും പോലീസ് ഇടപെടാൻ തുടങ്ങുമ്പോൾ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യും C P C യഥാർത്ഥത്തിൽ താഴ്ന്നതിന്റെ കാരണം അതാണ് കാരണം പോലീസ് പോസ്റ്റ് നോക്കാൻ തുട ങ്ങുമ്പോൾ പോസ്റ്റിലെ ചർച്ചയുടെ വളയം യഥാർത്ഥത്തിൽ എളുപ്പത്തിൽ അല്ലെങ്കിൽ വേഗത്തിൽ അടയ്ക്കാൻ പോലീസിന് കഴിയും അത് ഇത് അർത്ഥമാക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ കണ്ട രണ്ടാമത്തെ ചോദ്യം പോലീസും പൌരന്മാരും എങ്ങനെ ഇടപഴകുന്നു എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള നിഗമനങ്ങൾ ശരാശരി കമന്റുകളും ശരാശരി ലൈക്കുകളും ആണ് അവിടെ പോലീസും പൌരന്മാരും ഉള്ളപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള ഒരു പൌരനെക്കാൾ കുറവാണ് ശരാശരി ലൈക്കുകൾ ഒരു ലളിതമായ കാരണം പോലീസിന് ചർച്ചയുടെ ലൂപ്പ് വേഗത്തിൽ അടയ്ക്കാൻ കഴിയും അടുത്തതായി നമ്മൾ കാണുന്നത് വൈകാരികമായ കൈമാറ്റമാണ് അത് വികാരങ്ങളുടെ സ്വഭാവമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വികാരപ്രകടനമാണ് ഇതിൽ വരുന്നത് പൌരന്മാർ ത്രെഡുകൾ ആരംഭിക്കുമ്പോൾ നമുക്ക് നോക്കാവുന്ന ഒരു നിഗമനം എപ്പോഴും ഉയർന്ന നിഷേധാത്മക വികാരമാണ് നെഗറ്റീവ് പ്രഭാവം ഉത്കണ്ഠ കോപം ആവേശം എന്നിവ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പട്ടിക ഇതാ പോലീസ് യഥാർത്ഥത്തിൽ ഇടപെടുന്നതിൽ പ്രതി കൂല സ്വാധീനം കൂടുതലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് 0 021 നും 0 018 നും ഇടയിലാണ് ഇതിന് കാരണം പൌരന്മാർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നു ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നു അയൽപക്ക പ്രശ്നങ്ങൾ പോലെ മുമ്പ് കണ്ട ചില ഗ്രാഫുകളിൽ പോലും അവർ യഥാർത്ഥത്തിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നെഗറ്റീവ് പ്രഭാവം കൂടുതലാണ് പൌരന്മാർ ആരംഭിക്കുന്ന ഈ പോസ്റ്റുകളിൽ പോലീസ് ഇടപെടാൻ തുടങ്ങുമ്പോൾ ഉത്കണ്ഠ കുറയുന്നു നിങ്ങൾ അടുത്തതായി നോക്കുകയാണെങ്കിൽ മൂല്യം 0 001 നും സിസിക്കും 0 003 നും ഇടയിൽ കാണാൻ കഴിയും കാരണം ഈ പോസ്റ്റിൽ പോലീസ് ഇടപെടാൻ തുടങ്ങുന്നത് പോലീസിന് യഥാർത്ഥത്തിൽ ലൂപ്പ് പൂർത്തിയാക്കാൻ കഴിയും കാരണം ചർച്ച പൂർത്തിയാക്കുന്നതിനും ചർച്ച അവസാനിപ്പിക്കുന്നതിനും മുമ്പ് കുറച്ച് സ്ലൈഡുകൾ ഞാൻ പറഞ്ഞു ഇത് പൌരന്മാരുടെ ഉത്കണ്ഠ കുറയാൻ അനുവദിക്കുന്നു മൂന്നാമത്തെ വരിയിൽ C P C ക്കും C C ക്കും 0 006 മുതൽ 0 005 വരെ കോപവും കൂടുതലാണെന്ന് കാണിക്കുന്നു കോപം കൂടുതലാണെങ്കിൽ പൌരന്മാർ യഥാർത്ഥത്തിൽ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുകയും അവർക്ക് കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ കഴിയുന്നത്ര വേഗത്തിൽ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അവർ പോലീസിനെ സമീപിക്കുന്നു C P C യിൽ വീണ്ടും ഉണർവ് തീർച്ചയായും കൂടുതലാണ് വീണ്ടും പൌരന്മാർ ത്രെഡുകൾ ആരംഭിച്ചപ്പോൾ C P C അറൂസൽ കൂടുതലാണ് കാരണം തീവ്രമായ ചർച്ച കൂടുതലാണ് കാരണം നിങ്ങൾ പോലീസിൽ നിന്ന് വീണ്ടും കാര്യങ്ങൾ ചെയ്തു കിട്ടാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ ആരംഭിച്ച ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ലൈഡുകളുടെ ഈ ഡെക്കിന്റെ അവസാന ഭാഗം നോക്കാം ആദ്യ ചോദ്യം ആരംഭിച്ചത് വിഷയപരമായ സവിശേഷതകളായിരിക്കും രണ്ടാമത്തേത് എൻഗേജ്മെന്റ് സവിശേഷതകളായും മൂന്നാമത്തേത് വൈകാരിക കൈമാറ്റങ്ങളായും നാലാമത്തേത് വൈജ്ഞാനികവും സാമൂഹികവുമായ ലക്ഷ്യങ്ങളുമാണ് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ചോദ്യം ഇതാണ് സാമൂഹിക പ്രതികരണ പ്രക്രിയയിൽ ഭാഷാപരമായ സവിശേഷതകൾ അല്ലെങ്കിൽ വൈജ്ഞാനിക സ്വഭാവം എന്താണ് ആളുകൾക്ക് ഒന്നിലധികം തരത്തിൽ പഠിക്കാൻ കഴിയുന്ന വളരെ വിശാലവും ചോദ്യവുമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു നമുക്ക് കഴിയുന്ന ഒരേയൊരു സമീപനം i he theys എന്നിങ്ങനെ ശരിയായ നാമങ്ങൾ നോക്കുക എന്നതാണ് പൌരന്മാർ ആരംഭിച്ച പോസ്റ്റിൽ ഉപയോഗിച്ച വാക്കുകൾ പൌരന്മാർ ആരംഭിക്കുന്ന മിക്ക പോസ്റ്റുകളും യഥാർത്ഥത്തിൽ സ്വയം നയിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ തങ്ങളെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നതോ ആണെന്ന് നമ്മൾ കാണുന്നു ഈ പട്ടികയിലെ ഏറ്റവും ഉയർന്നത് i ആണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാം പോസ്റ്റിനുള്ള ഒരു ഉദാഹരണം ഞാൻ യുകെയിലാണ് താമസിച്ചിരുന്നത് ആരും ബ്ലാ ബ്ലാ ബ്ലാക്ക് ഹോൺ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല അതിനാൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കൂടുതലും അവതരിപ്പിക്കുന്നത് നമ്മൾ ശേഖരിക്കുന്ന ഫേസ്ബുക്ക് ഡാറ്റയിലാണ് എന്തുകൊണ്ടാണ് ഇതെല്ലാം പ്രധാനപെട്ടതായതെന്നു നമുക്ക് നോക്കാം ഈ കോഴ്സിനായുള്ള ആഴ്ച മുഴുവൻ ഈ ആഴ്ച ഞാൻ നിങ്ങളെ ഫേസ്ബുക്കിൽ സൃഷ്ടിച്ച ഡാറ്റ സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ച പോലീസ് ഓർഗനൈസേഷനുകൾക്കായി ചില വിശകലനങ്ങൾ നടത്തുന്നു പോലീസും പൌരന്മാരും തമ്മിൽ എന്ത് തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുവെന്ന് കണ്ടു എന്തു കൊണ്ടാണ് എല്ലാം പ്രധാനമാകുന്നത് പോലീസിംഗും കമ്മ്യൂണിറ്റി സെൻസിംഗും മെച്ചപ്പെടുത്തണമെന്ന് ഇത് തീർച്ചയായും പോലീസിനോട് പറയുന്നു ഇത് ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുക എന്നതാണ് ഇടപഴകൽ വികാരങ്ങൾ സാമൂഹിക പിന്തുണ തുടങ്ങിയ പെരുമാറ്റ സവിശേഷതകൾ റെക്കോർഡ് ചെയ്യാനും മനസ്സിലാക്കാനും ഉപയോഗിക്കാം 3 ൽ നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അതാണ് സുരക്ഷാ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന താമസക്കാർക്ക് വൈകാരിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് പോലീസ് സമൂഹത്തെ പ്രാപ്തമാക്കും വിശകലനത്തിൽ വീണ്ടും സംസാരിച്ച കാര്യങ്ങൾ ഇവയാണ് പോലീസും പൌരന്മാരുമായുള്ള ചർച്ചാ വിഷയം പോലീസ് ശരിയായി സംസാരിക്കുമ്പോൾ ഉത്കണ്ഠയുടെ തോത് നൽകുന്നു CPC യെക്കുറിച്ച് നിങ്ങളെ കാണിക്കുന്ന സ്ലൈഡുകളുടെ ഒരു ദമ്പതികൾ CPC യിൽ ഉത്കണ്ഠയുടെ മൂല്യം യഥാർത്ഥത്തിൽ കുറവാണ് കാരണം പോലീസ് ഉദ്യോഗസ്ഥർ പൌരന്മാരുമായി ഇടപഴ കുമ്പോൾ കൂടുതൽ ഉത്കണ്ഠയുടെ തോത് കുറവാണെങ്കിലും അല്ലെങ്കിൽ അത് കുറവായിരിക്കും കാരണം ആളുകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് പോലീസ് യഥാർത്ഥത്തിൽ ഉത്തരം നൽകാൻ തുടങ്ങുന്നു ഉദാഹരണത്തിന് എന്റെ അയൽപക്കത്ത് ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറയുന്നു പോലീസ് വന്ന് പറയുന്നു ഓ നല്ലത് ഞങ്ങളെ അറിയിച്ചതിന് നന്ദി ശരിയായ പോലീസ് ഉദ്യോഗസ്ഥന് ഇത് കൈമാറുന്നതിനായി ഉചിതമായ കാര്യം ചെയ്യും അതിനാൽ CP പ്രതികരിക്കുമ്പോൾ പൌരന്മാർക്ക് കുറച്ച് സംതൃപ്തി ഉണ്ട് രസകരമെന്നു പറയട്ടെ ചില സാങ്കേതികവിദ്യകളും നമുക്ക് വികസിപ്പിക്കാൻ കഴിയും പോലീസിൽ നിന്ന് അവർ പിന്തുണയും പ്രവർത്തനങ്ങളും സംബ ന്ധിച്ച് സമവായ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കമ്മ്യൂണിറ്റികളെ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള ഇടപെടലുകളെ സഹായിക്കുന്നതും കൂടുതൽ സുരക്ഷിതമായ നഗരങ്ങളുണ്ടാക്കാൻ സഹായിക്കുന്നതും പോലീസും പൌരന്മാരും തമ്മിലുള്ള കൂടുതൽ ഇടപെടലുകളെ സഹായിക്കുന്നതുമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കാൻ അവർക്ക് ശരിക്കും കഴിയും ആളുകളുടെ വികാരങ്ങളിലെ മാറ്റം മനസ്സിലാക്കാൻ ഇത് സഹായിക്കും ഉദാഹരണത്തിന് ഞാൻ ഇന്ന് പോലീസ് പേജ് കൈകാര്യം ചെയ്യുന്നു ഇന്നത്തെ ഒരു പ്രത്യേക പ്രശ്നത്തെക്കുറിച്ച് ആളുകൾക്ക് എന്ത് തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണുള്ളതെന്നും എന്റെ അധികാരപരിധിയിൽനിന്നും ഒരു മാസത്തിനു ശേഷം എന്ത് സംഭവിക്കുന്നു ഒരു വർഷത്തിനുശേഷം എന്ത് സംഭവിക്കുന്നുവെന്നും അവർ കാണുന്നു ഇത് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ചില പ്രവചനാത്മക വിശകലന പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനും സഹായിക്കും ഈ ഡാറ്റയെ ചുറ്റിപ്പറ്റിയുള്ള പ്രവചനാത്മക വിശകലനങ്ങളും യഥാർത്ഥത്തിൽ പോലീസ് ഓർഗനൈസേഷനുകളെ അവരുടെ ജോലി മെച്ചപ്പെടുത്താനും നഗരങ്ങളെ കൂടുതൽ സുരക്ഷിതമാക്കാനും സഹായിക്കുന്നു ഇത് പൌരന്മാരുടെ പ്രതികരണങ്ങൾ തിരിച്ചറിയാനും രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്നവരുമായി ഈ രേഖകൾ പങ്കിടാനും സഹായിക്കും ഇത് യഥാർത്ഥത്തിൽ ലഭിക്കും അതായത് ചില ഓർഗനൈസേഷനുകൾക്കും ഇത് ചെയ്യാൻ കഴിയും ഈ ആഴ്ചയിൽ ഈ മാസം ലഭിച്ച പോസ്റ്റുകളുടെ എണ്ണവും ഇതാണ് നമുക്ക് ലഭിക്കുന്നതെന്നും പരസ്യമായി പറയുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനമായി പ്രവർത്തിക്കാൻ കഴിയും ഈ ഡാറ്റയുടെ ഒരു പ്രവചന ഉപയോഗമായി പ്രവർത്തിക്കാൻ കഴിയും പ്രവചന വിശകലനത്തിനും ഇത് ഉപയോഗിക്കാം അടിസ്ഥാനപരമായി ഇവയെല്ലാം പോലീസിന്റെയും പൌരന്മാർക്കും മികച്ച രീതിയിൽ ഇടപെടുന്നതിലും സാമൂഹിക സ്വാധീനത്തെ സഹായിക്കും പോലീസിന് അവരുടെ തീരുമാനം മികച്ചതാക്കാൻ സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കാനാകും അത് പൌരന്മാർക്ക് സുരക്ഷിതമായ ജീവിതം നയിക്കാൻ സഹായിക്കും അതോടെ ഞാൻ ആഴ്ച 5 ലെ ഉള്ളടക്കം നിർത്തുന്നു ഈ ഓർഗനൈസേഷനുകൾ എങ്ങനെ സൃഷ്ടിക്കുന്നു അവയ്ക്ക് ഏതുതരം പേജുകളുണ്ട് ഈ പേജുകളിൽ എന്ത് ഉള്ളടക്കം സൃഷ്ടിക്കപ്പെടുന്നു നമ്മൾ അവിടെ നിന്ന് ചില ഗവേഷണ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇത്തരത്തിലുള്ള ഗവേഷണം നടത്തുന്നത് ഇന്ത്യൻ വെബ്പേജുകൾ ഇന്ത്യൻ പോലീസ് ഓർഗനൈസേഷനുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇത് ലോകമെമ്പാടും ചെയ്യുന്നതാണ്